ഇന്നിവിടെ ഒരു വിശകലന ഉപാധിയെ പറ്റി ചർച്ച ചെയ്യാനാണ് കൂടിയിരിക്കുന്നത് ഒരു കാര്യത്തിൻറെ അടിസ്ഥാനകാരണം എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നതിനുള്ള വിശകലന ഉപാധി ഞാൻ ഒരു കഥയിൽ കൂടി ഇത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു എൻറെ ഒരു വിദ്യാർഥി എന്നുംസമയം വൈകീട്ടാണ് ക്ലാസ്സിൽ വരുന്നത് ഞാൻസാധാരണഉള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചു പുച്ഛം തമാശകൾ ഹാജർകൊടുക്കില്ല എന്നുള്ള ഭീഷണിപ്പെടുത്തൽ ഇങ്ങനെയുള്ളവ ഒന്നുംതന്നെ വിജയിച്ചില്ല ഇവിടെ എന്താണ് സംഭവിച്ചത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഞാൻ മൾട്ടി വൈ അനാലിസിസ് അല്ലെങ്കിൽ 5 വൈസ് അനാലിസിസ് ചെയ്യുവാൻ തീരുമാനിച്ചു ആ ഉപാധി നല്ലപോലെ വർക്ക് ചെയ്തു ഒരു അഞ്ചു വയസ്സായ കുട്ടി ചോദിക്കുമ്പോലെ എന്തുകൊണ്ടെന്ന് പലപ്രാവശ്യം ചോദിക്കു അതാണ് 5 വൈസ് അനാലിസിസ് എന്നതിൻറെ കാതൽ 70 കളിൽ ടൊയോട്ടോ വളരെ പ്രശസ്തമാക്കിയ ഒരു ഉപാധിയാണ് ഇത് വളരെയധികം പ്രയോജനകരമാണ് എന്തുകൊണ്ടെന്നാൽ ഇത് വളരെ ലളിതമാണ് ഈ കുട്ടി എന്തുകൊണ്ടാണ് ക്ലാസിൽ നേരം വൈകി വന്നിരുന്നത് കുട്ടി വൈകിട്ട് ആണോ കിടക്കുന്നത് കുട്ടി വൈകിട്ടാണ് കിടക്കുന്നത് അപ്പൊ മറ്റൊരു ചോദ്യം എന്തുകൊണ്ടാണ് കുട്ടി നേരം വൈകി കിടക്കുന്നത് വളരെയധികം അസൈമെൻറ് ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ടാണ് കുട്ടിവൈകി കിടക്കുന്നത് മറ്റൊരു ചോദ്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ കുട്ടിക്ക് അധികംഅസൈമെൻറ് ചെയ്ത അവസാനിപ്പിക്കാൻ ഉള്ളത് അവൻ എല്ലാ കാര്യവും നീട്ടി വയ്ക്കുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് വിദ്യാർത്ഥിക്ക് സമയമോ അച്ചടക്കമോ ഉണ്ടായില്ല അതുകൊണ്ട് അസൈമെൻറ് സമയാസമയങ്ങളിൽ അവസാനിപ്പിച്ചില്ല എല്ലാം നീട്ടി നീട്ടി വെച്ചു കുന്നുകൂടി നേരം വൈകി കിടന്നു എഴുന്നേൽക്കാൻ നേരം വൈകി എന്തുകൊണ്ടാണ് വിദ്യാർത്ഥിഎല്ലാകാര്യങ്ങളും നീട്ടി വയ്ക്കുന്ന ആളായത് കോഴ്സ്ൻറെ ലോഡ് കൊണ്ടാണോ അങ്ങനെ അതോ സ്വഭാവം ആണോ അവൻറെ സ്വഭാവം കൊണ്ടാണ് അങ്ങനെ ആയത് എന്ന ഉത്തരത്തിലേക്ക്എത്തിച്ചേരാൻ പറ്റി ഇത് നല്ലൊരു ഉദാഹരണമായിരുന്നു 5 വൈസ് അനാലിസിസ് എന്ന വിശകലന ഇവിടെ ഉപാധിയുടെ താങ്ക്യൂ